ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ കോഴ്സിലെ മൂന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം അടിസ്ഥാനപരമായി ഡ്രിഫ്റ്റ് താപനില സമയം എന്നിവയ്ക്ക് വേണ്ടിയാണ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് ഇത്രയുമാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ ചർച്ച ചെയ്ത കാലിബ്രേഷൻ കർവിൽ സമയം ഒരു ഘടകമല്ല ഒരു ഇൻപുട്ട് നൽകിയാൽ സ്റ്റഡി സ്റ്റേറ്റിൽ ഔട്ട്പുട്ട് ലഭിക്കുന്നു ഇനി നമുക്ക് ഇൻപുട്ട് സ്റ്റഡി ആയി ഇരിക്കുമ്പോൾ ഉള്ള ഉപകരണത്തിൻറെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ചർച്ച ചെയ്യാം ഇവിടെ ഇൻപുട്ട് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇൻപുട്ട് വാല്യൂ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ എങ്ങനെ ഔട്ട്പുട്ട് സിഗ്നൽ മാറുന്നു എന്നതിനെപ്പറ്റി കൂടിയാണ് നമ്മൾ സ്റ്റഡീസ്റ്റേറ്റ് നെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത് സിഗ്നൽ കൈവരിക്കുന്ന പുതിയ സ്റ്റഡീ സ്റ്റേറ്റ് വാല്യൂവിനെ കുറിച്ചു കൂടിയാണ് സമയം നീങ്ങുന്നത് അനുസരിച്ച് എങ്ങനെ ഈ വാല്യൂ കൈവരിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഉപകരണങ്ങളുടെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇതനുസരിച്ച് പലതരം ഉപകരണങ്ങൾ ഉണ്ട് ഏറ്റവും ലളിതമായ സീറോ ഓർഡർ ഉപകരണത്തിൽ നമുക്ക് ആരംഭിക്കാം ഇതിൻറെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിരിക്കുന്നത് y Kx എന്നാണ് ഇവിടെ ഔട്ട്പുട്ട് തൽക്ഷണം ഇൻപുട്ടിനു തുല്യമാകുന്നു ഇത് റസിസ്റ്റൻസ് പോലെയാണ് വോൾട്ടേജ് നൽകുമ്പോൾ പെട്ടെന്ന് തന്നെ കറണ്ട് ലഭിക്കുന്നു അതിനാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് അനുപാതം ലീനിയർ ആണ് ഓരോ ക്ഷണവും ഈ ലീനിയാരിറ്റി നിലനിൽക്കുന്നു ഇങ്ങനെയൊരു ഉപകരണത്തിന് ഡൈനാമിക്സ് ഇല്ല സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് ഇവയ്ക്കുള്ളത് അങ്ങനെയുള്ള ഉപകരണങ്ങളെ സീറോ ഓർഡർ ഉപകരണങ്ങൾ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് പൊട്ടൻഷ്യോമീറ്റർ ഇത് ഒരു റസിസ്റ്റൻസ് ആണ് പൊട്ടൻഷ്യോമീറ്റർ പൊതുവേ സ്ഥാനം അളക്കുന്നു പൊട്ടൻഷ്യോമീറ്റർ വേരിയബിൾ പോയിൻറ്സിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു വേരിയബിൾ പോയിൻറ് ചലിക്കുമ്പോൾ ലഭിക്കുന്ന വോൾട്ടേജ് സ്ഥാനത്തിന് നേരിട്ട് ആനുപാതികമായിരിക്കും സ്ഥാനം മെക്കാനിക്കൽ വേരിയബിൾ ആയതുകൊണ്ട് പെട്ടെന്നുള്ള മാറ്റം ഉണ്ടാകില്ല ഇലക്ട്രിക്കൽ സ്വഭാവം വളരെ പെട്ടെന്നാണ് മാറുന്നത് ഇതിനെ ഒരു ശുദ്ധമായ റെസിസ്റ്റൻസ് ആയി കരുതിയാൽ ലഭിക്കുന്നതാണ് സീറോ ഓർഡർ ക്യാരക്ടറിസ്റ്റിക്സ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിസ്പ്ലേസ്മെൻറ് θ യ്ക്ക് നേരിട്ട് അനുപാതികം ആണ് ഇവിടെ ആൻഗുലാർ ഡിസ്പ്ലേസ്മെൻറ് എന്നു പറയാം പൊട്ടൻഷ്യോമീറ്റർ ആൻഗുലാർ ലീനിയർ ഇവ രണ്ടും ആണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ നിശ്ചിതമായ സെൻസിറ്റിവിറ്റിയെ വോൾട്ട്സ് പെർ റേഡിയൻ എന്നു വിളിക്കുന്നു നേരെമറിച്ച് മറ്റു ചില ഉപകരണങ്ങളിൽ ഇൻപുട്ട് പെട്ടെന്ന് മാറുമ്പോൾ ഔട്ട്പുട്ടിനു പെട്ടെന്ന് മാറാൻ സാധിക്കില്ല ഇതിനായി ഔട്ട്പുട്ട് കുറച്ചു സമയം എടുക്കുന്നു ഉദാഹരണത്തിന് താപനില അളക്കുന്ന ഉപകരണമായ തെർമോകപ്പിളിന്റെ കാര്യമെടുക്കാം താപനില അളക്കുമ്പോൾ ഉദാഹരണത്തിന് നീരാവി തെർമോകപ്പിൾ നേരിട്ട് ഉപയോഗിച്ചാൽ അത് സെൻസർ വേഗത്തിൽ കേടുവരുത്തും അതിനാൽ യഥാർത്ഥത്തിൽ ഇത് ഒരു തെർമോ വെൽ എന്ന ഒരു ട്യൂബിന് അകത്താണ് വയ്ക്കുന്നത് ചുറ്റുപാടുമുള്ള താപനില മാറുമ്പോൾ ഇത് സെൻസ് ചെയ്യാൻ കുറച്ചു സമയം ആവശ്യമുണ്ട് തെർമോ വെല്ലിൻറെ ഉൾഭാഗത്തുകൂടി താപം ഒഴുകി തെർമോകപ്പിൾ ജംഗ്ഷനിൽ എത്താൻ അവിടെ ഒരു ഇ എം എഫ് നിലവിൽ വരുന്നതിനു മുമ്പ് കുറച്ചുസമയം ആവശ്യമുണ്ട് ഇത്തരം ട്രാൻസ്ഡ്യൂസർസിനു തെർമോകപ്പിളിന്റെ മാതൃകയെ ആശ്രയിക്കുന്ന ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ സ്വഭാവം ഉണ്ടായിരിക്കണം സ്വാഭാവികമായി ഫസ്റ്റ് ഓർഡർ ഉപകരണങ്ങൾ ഒരു സ്റ്റോറേജ് എലമെൻറ് മാത്രമുള്ള ട്രാൻസ്ഡ്യൂസർ ആയിരിക്കും ഇത്തരം അവസ്ഥയിൽ ഔട്ട്പുട്ട് വാല്യൂ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് പിന്തുടരുന്നത് ഇവിടെ τ സിസ്റ്റത്തിന്റെ ടൈം കോൻസ്റ്റൻറ് ആണ് τ വലുതാണെങ്കിൽ സിസ്റ്റം സാവധാനമാണ് ഉയരുന്നത് τ ചെറുതാണെങ്കിൽ സിസ്റ്റം വേഗത്തിലായിരിക്കും ഉയരുക ഒരു സെൻസറിന്റെ സ്റ്റെപ് ഇൻപുട്ടിനോടുള്ള റസ്പോൺസ് കണക്കാക്കാൻ കഴിഞ്ഞാൽ ഇത്തരം സെൻസറിന്റെ മറ്റു പല ഇൻപുട്ടിനോടുമുള്ള റസ്പോൺസ് ക്യാരക്ടറൈസ് ചെയ്യാൻ സാധിക്കും 2 ഉദാഹരണങ്ങൾ ഇവയാണ് മെർക്കുറി ഗ്ലാസ് തെർമോമീറ്റർ തെർമോ കപ്പിൾ തെർമോ വെൽ thermocouple thermo well ആദ്യമായി നാം പരിഗണിക്കുന്ന ഇൻപുട്ട് സ്റ്റെപ് ഇൻപുട്ട് ആണ് എന്നാൽ എന്നാൽ 0 യിൽ നിന്ന് പെട്ടെന്ന് 1 ലേക്ക് ഉയരുന്നു അതായത് t 0 യിൽ ഇൻപുട്ട് 1 ആണ് അതിനാൽ ടൈം റെസ്പോൺസ് y ഇതുപോലെ ടൈമിന്റെ ഫങ്ക്ഷൻ ആയിരിക്കും ഇത് എന്ത് തരം ഫങ്ക്ഷൻ ആയിരിക്കും എന്ന് ഗ്രാഫ് കാണിച്ചു തരും ഇവിടെ കാണാൻ സാധിക്കുന്നതുപോലെ ഇത് ക്രമേണ ഉയർന്നു 1 ആകുന്നു വലിയ ഒരു τ ആണ് ഉള്ളതെങ്കിൽ ഇത് സാവധാനം ആയിരിക്കും ഉയരുക τ ചെറുതാണെങ്കിൽ വേഗത്തിൽ ഉയരും ഇതാണ് τ കുറയുന്നത് ഒരു ആർബിട്രറി അല്ലെങ്കിൽ വസ്തുനിഷ്ഠം അല്ലാത്ത ഇൻപുട്ടിനോടുള്ള ഡൈനാമിക് സെൻസറിന്റെ റസ്പോൺസ് അറിയാൻ ആണ് നമുക്ക് താല്പര്യം ഉള്ളത് ആർബിട്രറി വേവ് ഫോംസിനെ സൈനുസോയ്ഡ്സിന്റെ അതായത് സൈൻ ആൻഡ് കൊസൈൻ വേവ് സങ്കലനം ആയി സങ്കൽപ്പിക്കാം വ്യത്യസ്ത ആവൃത്തിയുള്ള സൈനുസോയ്ഡ്സിന് ഒരു ഉപകരണം നൽകുന്ന റെസ്പോൺസ് ക്യാരക്ടറൈസ് ചെയ്യുന്നത് വളരെ ഗുണകരമാണ് ഇതിനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് വിളിക്കുന്നത് ഇത് ഒരു ഉപകരണത്തിന് വളരെ പ്രധാനമാണ് ഒരു ഉപകരണത്തിന് ഞാൻ i sin ωt എന്ന സൈനുസോയ്ഡ് നൽകുന്നു എന്ന് കരുതുക ഉപകരണം ലീനിയർ ആണെങ്കിൽ വ്യത്യസ്ത മാഗ്നിറ്റ്യൂഡിൽ ഉള്ള സൈൻ വേവ് ലഭിക്കുന്നു അതിന് ഒരു ഫേസ് ലാഗ് കൂടി ഉണ്ടാകും രണ്ടുകാര്യങ്ങളാണ് നാം പഠിക്കാൻ ശ്രമിക്കുന്നത് ഫ്രീക്വൻസിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല ഇത് ഇൻപുട്ട് ഫ്രീക്വൻസി തന്നെയായിരിക്കും ഗെയിൻ അഥവാ ഔട്ട്പുട്ട് മാഗ്നിറ്റ്യൂഡ് ഇൻപുട്ട് മാഗ്നിറ്റ്യൂഡ് ഇവ തമ്മിലുള്ള അനുപാതം ആണ് ആദ്യത്തേത് രണ്ടാമത്തേത് ഫേസ് ലാഗ് ആണ് ഇതൊരു മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ ആണ് ഫ്രീക്വൻസിയുടെ വ്യത്യസ്ത വാല്യൂസിൽ ഗെയിൻ ഇങ്ങനെയാണ് മാറുന്നത് വളരെ കുറഞ്ഞിരിക്കുമ്പോൾ ഗെയിൻ 1 ആണ് കാരണം വളരെ കുറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ പതുക്കെ സൈനുസോയ്ഡ് നൽകുന്നു എന്നാണ് അതായത് ഉപകരണത്തിന് എപ്പോഴും സ്റ്റഡി സ്റ്റേറ്റിലേക്ക് വരാൻ സാധിക്കും ഇൻപുട്ട് വാല്യൂ ലഭിക്കും എന്നാണ് നേരെ മറിച്ച് ഇൻപുട്ട് ഫ്രീക്വൻസി വർദ്ധിക്കുമ്പോൾ ഔട്ട്പുട്ട് ഉയരുമ്പോഴേക്കും ഇൻപുട്ട് മാറുന്നു അതിനാൽ ഉപകരണത്തിന്റെ ഔട്ട്പുട്ട് മതിയായ രീതിയിൽ ഉയരുന്നില്ല അതിനാൽ ഗെയിൻ താഴുന്നു ഇതാണ് ഉപകരണത്തിന്റെ ഫ്രീക്വൻസി ക്യാരക്ടറിസ്റ്റിക്സ് അതേപോലെ ഒരു ഫേസ് പ്ലോട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ ഫ്രീക്വൻസികളിലേക്ക് പോകുന്തോറും ഫേസ് ലാഗ് കൂടുന്നു ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന് സാധ്യമായ ഏറ്റവും കൂടിയ ഫേസ് ലാഗ് 90 ഡിഗ്രിസ് ആണ് ചിലപ്പോൾ സിസ്റ്റംസിനെ സെക്കൻഡ് ഓർഡർ സെൻസർ ആയി മോഡൽ ചെയ്യേണ്ടിവരും ഏതു ഏതുതരം മോഡൽ ഉപയോഗിക്കണമെന്ന് ഉള്ളത് ഭൌതികമായ കാരണങ്ങളെയും ഏതുതരം റെസ്പോൺസ് ആണ് ഉപകരണത്തിൽ നിന്നും ലഭിക്കുക എന്നതിനെയും ആശ്രയിച്ചാണിരിക്കുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇത് നിയന്ത്രിക്കുന്നത് ഉദാഹരണത്തിന് ആക്സിലറോമീറ്റർ അല്ലെങ്കിൽ മാസ്സ് സ്പ്രിങ് ഡാംപർ മാതൃകയിലുള്ള എന്തിനും ഒരു സെക്കൻഡ് ഓർഡർ ഡൈനാമിക്സ് ഉണ്ടായിരിക്കും ഇതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡൈനാമിക്സ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അനുസരിച്ചായിരിക്കും നൽകിയിരിക്കുക ഇതിലെ രണ്ടു ഘടകങ്ങൾ നാച്ചുറൽ ഫ്രീക്വൻസി ഡാംപിങ് ഫാക്ടർ എന്നിവയാണ് വീണ്ടും സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ റസ്പോൺസ് ആണ് നാം കാണാൻ പോകുന്നത് ഡാംപിങ് ഫാക്ടർ അനുസരിച്ച് 3 സന്ദർഭങ്ങൾ നമുക്ക് പരിശോധിക്കാം ആദ്യമായി സീറ്റ ഒന്നിനേക്കാൾ കൂടുതൽ ആയിരിക്കുന്ന സന്ദർഭം നോക്കാം ഇതിനെ ഓവർ ഡാംപ്ഡ് സിസ്റ്റം എന്ന് വിളിക്കാം ഔട്ട്പുട്ട് ടൈം ഫംഗ്ഷന്റെ സമവാക്യം ഇതാണ് അടുത്തതായി ξ 1 ആയിരിക്കുമ്പോൾ ഉള്ള സന്ദർഭമാണ് ഇതിനെ ക്രിട്ടിക്കലി ഡാംപ്ഡ് എന്നു വിളിക്കുന്നു അടുത്തതായി ആയി ξ 1 നും 0 ത്തിനും ഇടയിൽ ആയിരിക്കുമ്പോൾ അണ്ടർ ഡാംപ്ഡ് എന്നു വിളിക്കുന്നു പ്ലോട്ട് ഇതു പോലെയാണ് ഉണ്ടാവുക ഇത് സ്റ്റെപ് റെസ്പോൺസ് ആണ് ഇതാണ് ഇൻപുട്ട് സീറ്റ കുറഞ്ഞു വരുമ്പോൾ ഓസിലേറ്ററി സ്വഭാവം കാണപ്പെടുന്നു ഓവർ ഷൂട്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത് അണ്ടർ ഡാംപ്ഡ് സെൻസർസിൽ ഓവർ ഷൂട്ട് കാണാൻ സാധിക്കുന്നു നേരെമറിച്ച് ഓവർ ഡാംപ്ഡ് സിസ്റ്റത്തിൽ ഓവർ ഷൂട്ട് കാണാൻ കഴിയില്ല ഇത് ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിലെ പോലെ പതുക്കെ ഉയരുകയാണ് ചെയ്യുന്നത് അതേപോലെ ഒരു സൈനുസോയ്ഡ് ഇൻപുട്ടിന്റെ റെസ്പോൺസ് എടുത്താൽ ഇവയാണ് എക്സ്പ്രഷൻസ് ഇവിടെ ഗെയിൻ ഫേസ് ഷിഫ്റ്റ് എന്നിവ ലഭിക്കുന്നു ഇതാണ് ഗെയിനിന്റെ പ്ലോട്ട് ഗെയിൻ ഫ്രീക്വൻസി അനുസരിച്ച് മാറുന്നു അണ്ടർ ഡാംപ്ഡ് സിസ്റ്റത്തിൽ സിസ്റ്റം റസൊനേറ്റ് ചെയ്യാൻ തുനിയുന്നു ഇതാണ് റസൊണൻറ് ഫ്രീക്വൻസി അതിനാൽ റസൊണൻറ് ഫ്രീക്വൻസിയോട് അടുത്തുനിൽക്കുന്ന സൈനുസോയ്ഡ് നൽകിയാൽ നമുക്ക് വലിയ ഒരു ഔട്ട്പുട്ട് ലഭിക്കും നേരെമറിച്ച് ഓവർ ഡാംപ്ഡ് സിസ്റ്റത്തിൽ ഇത്തരം റെസൊണൻസ് ഇല്ല അടുത്തതായി ഫേസ് നോക്കാം ഇതാണ് ഫേസ് പ്ലോട്ട് കുറഞ്ഞ ഫ്രീക്വൻസിയിൽ ഫേസ് ചെറുതായി നിൽക്കും ഏറ്റവും കൂടിയ ഫേസ് ലഭിക്കുന്നത് 180 ഡിഗ്രിയിലാണ് ഇവയാണ് ഫേസ് ലാഗ്സ് നാം സെൻസർസിന്റെ സ്റ്റാറ്റിക് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് static dynamic characteristics കണ്ടു കഴിഞ്ഞു ഇനി ചില സ്പെസിഫിക്കേഷൻ ഉദാഹരണങ്ങൾ കാണാം ഉദാഹരണത്തിന് ഇത് ഒരു ഇൻഡസ്ട്രിയൽ തെർമോമീറ്റർ ആണ് ഇതിൽ എന്തൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നു നോക്കാം ഇത് തെർമോകപ്പിളിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഏതു തരം തെർമോകപ്പിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം റേഞ്ച് കൂടി നൽകിയിട്ടുണ്ട് അതായത് ഈ സ്പെസിഫിക്കേഷനോടൊപ്പം തെർമോമീറ്റർ ഉപയോഗിക്കാവുന്ന ഏറ്റവും കുറഞ്ഞതും ഏറ്റവും കൂടിയതുമായ വാല്യൂസ് നൽകിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ഇത് ഈ റേഞ്ചിൽ ഉപയോഗിച്ചാൽ ഒരു ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി സെൻറിഗ്രേഡ് റസല്യൂഷൻ ലഭിക്കും അതിനാൽ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഈ റേഞ്ചിലാണ് പ്രബലമായിരിക്കുക ഇവിടെ റേഞ്ച് 1370 ആണ് സ്പാൻ 1440 ആണ് റസല്യൂഷൻ ഒരു ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി സെൻറിഗ്രേഡ് ആയിരിക്കും ഇവിടെ 1 ഡിഗ്രി സെൻറിഗ്രേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സെൻസറിനു കണ്ടുപിടിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ മാറ്റം 1 ഡിഗ്രി സെൻറിഗ്രേഡ് ആണ് കാലിബ്രേഷൻ എറർ സ്റ്റാൻഡേർഡിൽ Calibration error standard നൽകിയിരിക്കുന്ന DIN ഒരു ജർമ്മൻ സ്റ്റാൻഡേർഡ് ആണ് BS ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ആണ് 25 ഡിഗ്രി സെൻറിഗ്രേഡിൽ മീറ്റർ അക്യുറസി എന്നാണ് നൽകിയിരിക്കുന്നത് അതായത് ചുറ്റുമുള്ള താപനില 25 ഡിഗ്രി സെൻറിഗ്രേഡ് ആയിരിക്കുമ്പോൾ മീറ്റർ അക്യുറസി റീഡിങിന്റെ 0 2 ± ഒരു അക്കം ആയിരിക്കും ഡിജിറ്റൽ ഡിസ്പ്ലേസ് ഉള്ളതുകൊണ്ടാണ് ± ഒരു അക്കം എന്നു വരുന്നത് അതിനാൽ ഡിജിറ്റൽ ഡിസ്പ്ലേസിൽ ക്വാൺടൈസേഷൻ കാണാൻ സാധിക്കും അതിനാൽ ആണ് ± ഒരു അക്കം എറർ വരുന്നത് അതിനാൽ അക്യുറസി റീഡിങിന്റെ 0 2 ആണ് ഈ സ്പെസിഫിക്കേഷസ് കൂടാതെ നാം ഉപയോഗിക്കുന്ന സെൻസർസിന് പ്രത്യേകമായുള്ള സ്പെസിഫിക്കേഷൻസ് കാണാൻ സാധിക്കും തെർമോകപ്പിൾസ് നീളമുള്ള വയർസ് ഉപയോഗിക്കുന്നതിനാൽ സീരീസ് മോഡ് റിജക്ഷൻ എന്ന സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കും നീളമുള്ള വയർസ് ഉപയോഗിക്കുന്നതിനാൽ പ്രത്യേകിച്ച് പവർ ഫ്രീക്വൻസിയിൽ സീരീസ് മോഡ് ഇൻറർഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ പവർ ലൈൻസ് ഉള്ളതിനാൽ പവർ ഫ്രീക്വൻസി ഇൻറർഫറൻസ് ഒരു സീരിസ് വോൾട്ടേജ് ആയി ചേർക്കുന്നു ഇത് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ ഇത്തരം വോൾട്ടേജസിനെ നിരാകരിക്കാൻ പാകത്തിലാണ് സെൻസർ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അതേ പോലെയാണ് സീറോ ഡ്രിഫ്റ്റ് ഓരോ തവണ റീഡിങ് എടുക്കാനുള്ള നിർദ്ദേശം ലഭിക്കുമ്പോഴും റീഡിങ് സ്വയം പൂജ്യത്തിൽ എത്തുന്നു ഇതിനെയാണ് സീറോ ഡ്രിഫ്റ്റ് എന്നു പറയുന്നത് ഈ സെൻസറിന്റെ എൻവിറോൺമെൻറൽ ടെമ്പറേച്ചർ റേഞ്ച് സൈസ് വെയിറ്റ് തുടങ്ങിയ സ്പെസിഫിക്കേഷൻ ആണ് നൽകിയിരിക്കുന്നത് അത് ഈ റേഞ്ചിൽ തന്നെ ഉപയോഗിക്കേണ്ടതാണ് അതേപോലെ തെർമോകപ്പിൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു തെർമോമീറ്ററിന്റെ കാര്യമെടുക്കാം ഇതിൻറെ റെയിഞ്ച് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അക്യുറസി 238 ഡിഗ്രി ഫാരൻഹീറ്റിന് താഴെ 150 ഡിഗ്രി സെൻറിഗ്രേഡിന് മുകളിൽ ഇതാണ് ഇതിൻറെ അക്യുറസി സ്റ്റേറ്റ്മെൻറ് ഇവിടെ റീഡിങിന് അനുസരിച്ച് ആണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഇതാകട്ടെ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പാനിന്റെ ശതമാനം അനുസരിച്ചും അടുത്ത മോഡ് ആയ ഡിഫറൻഷ്യൽ മോഡിൽ ± 100 ഡിഗ്രി സെൻറിഗ്രേഡ് സ്പാനിൽ ± 0 3 ഡിഗ്രി സെൻറിഗ്രേഡ് ആണ് അക്യുറസി ഒരു വ്യാവസായിക ഉപകരണത്തിന്റെ സ്പെസിഫിക്കേഷനിൽ ഇത്തരം ഘടകങ്ങൾ അടങ്ങിയിരിക്കും റസല്യൂഷൻ 0 1 ഡിഗ്രിയാണ് 9 ഡിഗ്രിക്ക് മുകളിൽ ഇത് ഒരു ഡിഗ്രിയാണ് മറ്റു കാര്യങ്ങൾ ബാറ്ററി ഹൌസിംഗ് മുതലായവയാണ് ബാറ്ററി വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് എടുത്തു കൊണ്ടുപോകാവുന്ന ഉപകരണങ്ങളിൽ അടുത്ത സെൻസർ ഒരു ഫ്ലോ മീറ്റർ ആണ് പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ആയ അക്യുറസി ലീനിയാരിറ്റി എന്നിവ ± 1 ഫുൾ സ്കെയിൽ ആണ് ചിലപ്പോൾ ഉപകരണം സ്വാഭാവികമായി ലീനിയർ ആയിരിക്കാം അതിനാലാണ് അവ ഒരുമിച്ചു കൊടുത്തിരിക്കുന്നത് അടുത്തതായി റിപ്പീറ്റബിലിറ്റി ± 0 2 ഫുൾ സ്കെയിൽ ആണ് അതായത് ഒരേ ഫ്ലോയുടെ 100 റീഡിങ് എടുത്താലും ± 0 2 ഫുൾ സ്കെയിലിൽ കൂടുതൽ റീഡിങിൽ വ്യത്യാസം വരില്ല ഫ്ലോ സിഗ്നൽ അന്തർലീനമായി ലീനിയർ ആണ് അതിനാലാണ് അക്യുറസി ലീനിയാരിറ്റി എന്നിവ ഒന്നുതന്നെ ആയത് ഇത് ലീനിയർ അല്ലെങ്കിൽ അക്യുറസി ലീനിയാരിറ്റി എന്നിവ വ്യത്യസ്തമായിരിക്കും ഇതുകൂടാതെ ഫ്ലോ സെൻസറിനു പ്രത്യേകമായി ചില സ്പെസിഫിക്കേഷൻ ഉണ്ട് ഉദാഹരണത്തിന് പ്രഷർ ഡ്രോപ്പ് വളരെ പ്രധാനമാണ് കാരണം ഫ്ലോ സെൻസറിലെ പ്രഷർ ഡ്രോപ്പ് യഥാർത്ഥത്തിൽ ഒരു എനർജി നഷ്ടമാണ് അതിനാൽ ഇത് കുറവായിരിക്കണം ഇത് ഏകദേശം 4 ഇഞ്ച് H2O എന്നാണ് കാണിക്കുന്നത് മറ്റുള്ള ഘടകങ്ങൾ മനസ്സിലാക്കാൻ ഇത് എന്തുതരം ഫ്ലോ മീറ്റർ ആണെന്ന് പറയേണ്ടിവരും ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇവിടെ പഠിച്ച കാര്യങ്ങൾ ഇവയാണ് എന്തുകൊണ്ടാണ് സെൻസർസ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത് എന്നു മനസ്സിലാക്കി ജനറൽ സ്ട്രക്ചർ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഘടകങ്ങൾ ആയ സെൻസിറ്റിവിറ്റി അക്യുറസി ലീനിയാരിറ്റി റസല്യൂഷൻ സ്പാൻ മുതലായവ മനസ്സിലാക്കി സീറോത്ത് ഫസ്റ്റ് സെക്കൻഡ് ഓർഡർ zeroth first and second order ഉപകരണങ്ങളുടെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി ഓസിലേഷൻസ് ഓവർഷൂട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇവ പ്രകടിപ്പിക്കുന്നു എന്നും ഇവയ്ക്ക് ടൈം കോൺസ്റ്റൻറ് ഉണ്ട് എന്നും മനസ്സിലാക്കി ചില ഇൻഡസ്ട്രിയൽ സ്പെസിഫിക്കേഷൻസ് കൂടി നാം കണ്ടു അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ചിന്തിക്കാനുള്ള ചില കാര്യങ്ങൾ നോക്കാം ആദ്യമായി അക്യുറസി ലീനിയാരിറ്റി ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എവിടെയാണ് അവയ്ക്ക് സാമ്യം എവിടെയാണ് വ്യത്യാസം എന്തുകൊണ്ട് രണ്ടാമതായി ഡെഡ് സോൺ റെസല്യൂഷൻ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത് ഇവയിൽ ഏതാണ് കൂടുതലായി കാണുന്നത് മൂന്നാമതായി സെൻസർസ് നേരിട്ട് ബാധിക്കുന്ന കൺട്രോൾ സിസ്റ്റത്തിലെ 2 പെർഫോമൻസ് പാരമീറ്റർസ് എന്തൊക്കെയാണ് അവസാനമായി സെൻസറിൽ ഡാംപിങിന്റെ പ്രാധാന്യം എന്ത് ഒരു ഇൻഡിക്കേറ്റിങ് ഉപകരണത്തിന്റെ ഡാംപിങ് എന്തായിരിക്കണം ഒരു റെക്കോർഡറിന്റെ ഡാംപിങ് എന്തായിരിക്കണം ഒരു ഒരു ഫീഡ്ബാക്ക് സെൻസറിന്റെ ഡാംപിങ് എന്തായിരിക്കണം ഇവയെപ്പറ്റി ചിന്തിക്കുക ഇന്നത്തേക്ക് ഇത്രയും കാര്യങ്ങളാണ്